എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 നെക്കുറിച്ചുള്ള ആറാമത്തെ പ്രഭാഷണത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ രണ്ട് വേരിയബിളുകളുടെ ഫങ്ക്ഷനുകളുടെ ലിമിറ്റ് ചർച്ച ചെയ്യും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിരവധി വേരിയബിളുകളുടെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഫംഗ്ഷനുകൾ എന്നിവയാണ് കൂടാതെ ഞാൻ ലിമിറ്റുകൾ അവതരിപ്പിക്കുന്നതിനുമുമ്പ് നിരവധി വേരിയബിളുകൾക്കായി നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകളെക്കുറിച്ചും ചർച്ച ചെയ്യും ആദ്യം ഞാൻ നിങ്ങളെ രണ്ട് വേരിയബിളുകളുടെ ഫംഗ്ഷനുകൾ പരിചയപ്പെടുത്താം ഒരു ഫംഗ്ഷൻ z f x y ഒരു വേരിയബിളിന്റെ ഫംഗ്ഷന് സമാനമാണ് ഇത് പക്ഷേ അവിടെ നമ്മൾ y x പോലെ പരിഗണിക്കുന്നു അവ ഒരു വേരിയബിൾ മാത്രമായി ഉപയോഗിക്കുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ z എന്നത് x y എന്നീ രണ്ട് വേരിയബിളുകളെ ആശ്രയിച്ചിരിക്കുന്നു ഇത് രണ്ട് വേരിയബിളുകളുടെ ഒരു ഫംഗ്ഷനാണ് ഇത് x y എന്ന രണ്ട് വേരിയബിളുകളുടെ യഥാർത്ഥ മൂല്യമുള്ള ഫംഗ്ഷനാണ് xy തലം ഒരു നിശ്ചിത ഭാഗത്തിന്റെ ഓരോ x y ഉം ആണെങ്കിൽ അതിനെ ഫംഗ്ഷന്റെ ഡൊമെയ്ൻ എന്ന് വിളിക്കുന്നു നമ്മൾ ഈ മൂല്യം നൽകിയാൽ ഈ നിയമം ഉപയോഗിക്കുന്നത് f x y നൽകിയ ചില നിയമമനുസരിച്ച് z f x y ന് ഒരു യഥാർത്ഥ മൂല്യത്തിന് തുല്യമാണ് തുടർന്ന് ഈ ഫംഗ്ഷനെ രണ്ട് വേരിയബിളുകളുടെ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു അപ്പോൾ എന്താണ് ഡൊമെയ്ൻ ഡൊമെയ്ൻ അടിസ്ഥാനപരമായി fxy നിർവചിച്ചിരിക്കുന്ന xy പോയിന്റുകളുടെ ശേഖരമാണ് റേഞ്ച് എന്നത് xy പോയിന്റിന്റെ അനുസരിച്ച് z ന്റെ മൊത്തത്തിലുള്ള സാധ്യമായ മൂല്യങ്ങളുടെ ശേഖരമാണ് ഇവിടെ x y ഇതിനെ ഇൻഡിപെൻഡന്റ് വേരിയബിളുകളായും z നെ ഡിപെൻഡന്റ് വേരിയബിൾ എന്നും വിളിക്കും ഈ സാഹചര്യത്തിൽ x y z ആക്സിസ് എന്നിവയുടെ കോർഡിനേറ്റ് സിസ്റ്റം പരിഗണിക്കാം ഉദാഹരണത്തിന് ഇവിടെ xy തലം ഇതാണ് ഈ ബിന്ദുവിനോട് അനുബന്ധിച്ച് നമ്മൾ ഈ f x y കണക്കുകൂട്ടുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഈ പോയിന്റിലെ z അക്ഷത്തിനൊപ്പം ഈ പോയിന്റിലെ ഉയരം ഈ ഫംഗ്ഷന്റെ fx y x കോർഡിനേറ്റ് കോമ y കോർഡിനേറ്റ് fxy z കോർഡിനേറ്റിലുമുള്ള 3 ഡൈമെൻഷനൽ സിസ്റ്റം പോയിന്റ് ഇതാണ് ഇപ്പോൾ ഡൊമെയ്നിലെ പോയിന്റുമായി പൊരുത്തപ്പെടുന്ന ഈ പോയിന്റുകളെല്ലാം നമ്മൾ ശേഖരിക്കുകയാണെങ്കിൽ ഈ ഉപരിതലം കൊള്ളും ഇവിടെ ത്രിമാന തലത്തിലെ രണ്ട് വേരിയബിളുകളുടെ പ്രവർത്തനം ഒരു ഉപരിതലത്തെ പ്രതിനിധീകരിക്കുന്നു ഈ ത്രിമാന കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഉപരിതലത്തെ പ്രതിനിധീകരിക്കുന്ന z f x y എന്നതിന് തുല്യമാണ് ഈ ഉദാഹരണം ഇവിടെ പരിഗണിക്കാം ഈ z റിയൽ ആയതിനാൽ ഇവിടെ ആർഗ്യുമെന്റ് 1 - x2 - y2 ≥ 0 ഇത് x2 y2 ≤ 1 എന്ന് സൂചിപ്പിക്കും നമ്മൾക്ക് R2 ലെ എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളുന്ന ഡൊമെയ്ൻ D ലഭിക്കുന്നു ഇതിനർത്ഥം രണ്ടും യഥാർത്ഥമാണ് xy തലം ഇവിടെ x2 y2 ≤ 1 ഇത് ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്കാണ് ഇത് ഫംഗ്ഷനായി ഡൊമെയ്ൻ രൂപപ്പെടുത്തുന്നു ഈ ഡൊമെയ്നിൽ നിന്നുള്ള പോയിന്റുകൾക്കായി z ന്റെ സാധ്യമായ മൂല്യങ്ങൾ റേഞ്ച് ആണ് ഇവിടെയുള്ള സ്ക്വയർ റൂട്ടിന്റെ ഈ മൂല്യം 0 1 എന്നിവയിലായിരിക്കും ഇവിടെ റേഞ്ച് R ആണ് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതാണ് ഇത് ഗോളത്തിന്റെ മുകളിലുള്ള പകുതി ഗോളമാണ് ഇവിടെ z അക്ഷം x അക്ഷം y അക്ഷം ഇവിടെ ഈ ഡൊമെയ്ൻ വൃത്താകൃതിയിലുള്ള ഡിസ്ക് ന് തുല്യമാണ് കൂടാതെ ഈ വൃത്താകൃതിയിലുള്ള ഡിസ്കിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ z ന്റെ മൂല്യം കണക്കുകൂട്ടി ഉപരിതല പ്ലോട്ട് ചെയ്യുന്നു രണ്ട് വേരിയബിളുകളുടെ ഫങ്ക്ഷനുകളുടെ ജ്യാമിതീയ വ്യാഖ്യാനമാണിത് ഇപ്പോൾ പിന്നീട് ലിമിറ്റ്ലേക്കും കണ്ടിന്യൂയിറ്റിയിലേക്കും നീങ്ങുന്നതിനുമുമ്പ് xy തലത്തിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം എന്ന ആശയം നമ്മൾക്ക് ആവശ്യമാണ് ഇവിടെ P Q എന്നീ x0 y0 x1 y1 കോർഡിനേറ്റുകളുള്ള രണ്ട് പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം എന്താണ് ഈ ത്രികോണം രൂപപ്പെടുത്തുന്നുണ്ടോ എന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും ഇവിടെ ഉയരം y1 - y0 പോലെയാകും ഇത് x1 - x0 ആയിരിക്കും ഇപ്പോൾ ഈ ദൂരം PQ ആയിരിക്കും ഇതാണ് ദൂരം Px0 y0 എന്ന പോയിന്റ്ന്റെ നെയ്ബർഹുഡ് നമ്മൾ ഇപ്പോൾ അവതരിപ്പിക്കും x0 y0 ആയി ഒരു പോയിന്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് P ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ പോയിന്റിലെ ഡെൽറ്റ നെയ്ബർഹുഡ് എന്താണെന്ന് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്തും ഇത് സാധാരണയായി Nδ അല്ലെങ്കിൽ NPδ സൂചിപ്പിക്കുന്നു ഇവിടെ സ്വാഭാവികമായും ഇപ്പോൾ ഇവിടെ ഇത് വീണ്ടും തുറന്ന വൃത്താകൃതിയിലുള്ള ഡിസ്ക് ആണ് അത് ഇവിടെ പ്രതിനിധീകരിക്കുന്നു അതാണ് പോയിന്റ് P ഉം ഇവിടെയുള്ള ദൂരവും ഇപ്പോൾ ഈ ഡിസ്കിലെ എല്ലാ പോയിന്റുകളും ഇവിടെ ഈ ബന്ധത്തെ തൃപ്തിപ്പെടുത്തുന്നു ഈ പോയിന്റിലെ നെയ്ബർഹുഡാണിത് അതിർത്തി ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഇത് ഒരു തുറന്ന നെയ്ബർഹുഡാണെന്ന് ശ്രദ്ധിക്കുക എന്നതിന് തുല്യമായതോ കുറഞ്ഞതോ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നതെങ്കിൽ ഈ ഡിസ്കിന്റെ അതിർത്തി സർക്കിളും ഇവിടെ ഉൾപ്പെടുത്തും ഇത് P യുടെ തുറന്ന നെയ്ബർഹുഡാണ് ഇത് നെയ്ബർഹുഡിനായുള്ള ഏറ്റവും സാധാരണമായ നിർവചനമാണ് എന്നാൽ x0 - δ നും x0 δ നും ഇടയിലുള്ള x y0 - δ നും y0δ നും ഇടയിലുള്ള y എന്ന സ്ക്വയർ എന്നും P യെ പരിചയപ്പെടുത്താം ഒരു വേരിയബിളിന്റെ ഫംഗ്ഷന്റെ ലിമിറ്റ് രണ്ട് വേരിയബിളുകളുടെ ഫംഗ്ഷനുകളുടെ ലിമിറ്റ് എന്ന ആശയം അവതരിപ്പിക്കുന്നതിനുമുമ്പ് നമ്മൾ ഇപ്പോൾ ഓർക്കുന്നു ആദ്യം ഒരു വേരിയബിളിന്റെ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ചർച്ച ചെയ്യേണ്ടത് പ്രധാനമാണ് പ്രധാനമായും ലിമിറ്റിന്റെ ഈ ഡെൽറ്റ എപ്സിലോൺ നിർവചനത്തിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇത് നിരവധി വേരിയബിളുകളുടെ ഫങ്ക്ഷനുകളുടെ ലിമിറ്റ് ചർച്ച ചെയ്യാൻ വളരെ പ്രധാനമാണ് ഒരു വേരിയബിൾ കേസിനായി നമ്മൾ പറയുന്നു ഓരോ നും ഒരു ഉണ്ടാകും x0 ന്റെ ഡെൽറ്റ നെയ്ബർഹുഡിൽ ഉള്ള x ന് എല്ലാം ആയിരിക്കണം ഈ പ്ലോട്ടിന്റെ സഹായത്തോടെ ഈ ആശയം ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം നമുക്ക് f എന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് ഈ x0 ലേക്ക് x സമീപിക്കുമ്പോൾ f ന്റെ ലിമിറ്റ് L ആണ് ഇവിടെ x0 പോയിന്റ് ഇതാണ് ഇതാണ് x0 പോയിന്റ് f L ആണ് ഈ നിർവചനം പറയുന്നത് ഓരോ നും യോജിക്കുന്നതാണ് ഇത് വളരെ ചെറിയ സംഖ്യയോ മറ്റോ ആകാം ഈ എപ്സിലോൺ പോസിറ്റീവ് എന്നതിനർത്ഥം ഈ L ന് ചുറ്റുമുള്ള ഈ ദൂരം സൂചിപ്പിക്കുന്നത് ഓരോ എപ്സിലോണിനും എത്ര ചെറുതാണെങ്കിലും ഈ x0 ന്റെ നെയ്ബർഹുഡിൽ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു ഇത് ഇവിടെയും ഇപ്പോളും നിങ്ങൾ എന്തെങ്കിലും x നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ നെയ്ബർഹുഡിൽ എന്തെങ്കിലും പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ f - L നേക്കാൾ കുറവായിരിക്കും അതെ ഇത് ഇവിടെയുണ്ട് ആ വ്യത്യാസം എന്നതിനേക്കാൾ കുറവായിരിക്കും ഈ പ്രവർത്തനം x ൽ നിർവചിക്കപ്പെടില്ല x0 പോയിന്റിലെ ഫംഗ്ഷന്റെ ലിമിറ്റ് നിർവചിക്കുക ഈ ഘട്ടത്തിൽ x0 ഫംഗ്ഷൻ നിർവചിക്കപ്പെടില്ല ഇവിടെ x x0 ന് തുല്യമാണെന്ന് ഒഴിവാക്കപ്പെടുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ f - L എന്ന വ്യത്യാസം നമുക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ ഇവിടെ ഈ വ്യത്യാസം f - L ഈ x0 ന് ചുറ്റുമുള്ള ഒരു ചെറിയ നെയ്ബർഹുഡ് പരിഗണിച്ച് നമുക്ക് ഈ വ്യത്യാസം ചെറുതാക്കാൻ കഴിയുമെങ്കിൽ ഈ f ഈ f ന്റെ ലിമിറ്റിന് തുല്യമാണെന്ന് നമ്മൾ പറയുന്നു x 1 ലേക്ക് പോകുമ്പോൾ ഈ 3x 1 ന്റെ ലിമിറ്റ് എന്താണ് എന്നും ഈ സാഹചര്യത്തിൽ ലിമിറ്റ് 4 ആണെന്ന് വ്യക്തമായി ഇവിടെ കാണാമെന്നും ഇവിടെ ഈ ഉദാഹരണം എടുക്കാം ഈ ϵδ സമീപനം ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ ഇത് തെളിയിക്കും തീർച്ചയായും 3x1 ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് നമ്മൾ എന്താണ് കാണിക്കേണ്ടത് തന്നിരിക്കുന്ന ഒരു ന് ഉണ്ടെന്ന് നമ്മൾ കാണിക്കേണ്ടതുണ്ട് ആയിരിക്കണം ഈ 1 ന് ചുറ്റുമുള്ള നെയ്ബർഹുഡാണിത് ഈ നെയ്ബർഹുഡിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇത് എന്ന് സൂചിപ്പിക്കും ഇത് തെളിയിക്കാൻ നമ്മൾ ഇവിടെ ഈ വ്യത്യാസത്തിൽ ആരംഭിക്കും

ഈ മോഡുലസ് ഈ നെയ്ബർഹുഡിലുള്ള എല്ലാ x ഉം തൃപ്തിപ്പെടുത്തുന്നു ഇവിടെ 3 ഉണ്ടായിരുന്നു 3δ ൽ കുറവാണ് ഇപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്താണ് ഈ വ്യത്യാസം വരുത്തുന്നതിന് നൽകിയ എപ്സിലോണിനേക്കാൾ ചെറുതാണ് ഇവിടെ ϵ എന്നതിനേക്കാൾ കുറവോ തുല്യമോ ആയി നമ്മൾ ഇവിടെ സജ്ജമാക്കുകയാണെങ്കിൽ δ നും നും ഇടയിൽ ഒരു ബന്ധം ലഭിക്കും നമുക്ക് ഇപ്പോൾ ഈ വ്യത്യാസം എന്നതിനേക്കാൾ കുറവാകുന്ന വിധത്തിൽ δ തിരഞ്ഞെടുക്കാം അപ്പോൾ എന്താണ് ബന്ധം ബന്ധം 3δ ≤ ϵ ആണ് നമ്മൾ ഇത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പിന്നെ ഏതൊരു നും ഈ ബന്ധം ആണ് ഈ ബന്ധം കാരണം നമുക്ക് ഇത് തിരഞ്ഞെടുക്കാനാകും തുടർന്ന് ഈ വ്യത്യാസം ϵ എന്നതിനേക്കാൾ കുറവായിരിക്കും ആയിരിക്കുമ്പോൾ ഈ പ്ലോട്ടിലെ സാഹചര്യം നമുക്ക് കാണാൻ കഴിയും ഇത് ഒരു ഉദാഹരണമാണ് x 1 ൽ ഫംഗ്ഷന്റെ മൂല്യം 4 ആണ് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നെയ്ബർഹുഡ് എടുക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഈ നെയ്ബർഹുഡ് തിരഞ്ഞെടുത്തു ഈ സാഹചര്യത്തിൽ ഒരു നെയ്ബർഹുഡ് വീണ്ടും സമാനമാണ് സാധാരണയായി ചെറുതാണെങ്കിൽ ചെറുതും വലുതാകുമ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് ഒരു വലിയ നെയ്ബർഹുഡ് ഉണ്ടാകാം ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ഈ പോയിന്റ് 4 ന് ചുറ്റുമുള്ള ഒരു വലിയ നെയ്ബർഹുഡ് തിരഞ്ഞെടുത്തു അതിനനുസരിച്ച് ഇത് വലുതാണ് ഈ δ നെയ്ബർഹുഡിൽ ഈ x എല്ലാം ഈ ബന്ധത്തെ തൃപ്തിപ്പെടുത്തുന്നു ഈ ഫംഗ്ഷൻ മൈനസ് 4 ന്റെ വ്യത്യാസം നേക്കാൾ കുറവാണ് ലിമിറ്റ് നിലവിലില്ലെങ്കിൽ ഒരു ലിമിറ്റ് നിലനിൽക്കാത്തതിന് എന്ത് സംഭവിക്കും ഉദാഹരണത്തിന് x0 ലേക്ക് x അടുക്കുമ്പോൾ വലത്തോട്ടോ ഇടത്തോട്ടോ ഉള്ള ലിമിറ്റ് L ന് തുല്യമല്ലെന്നും ഈ L ന് ചുറ്റും നമ്മൾ ശ്രമിച്ചാൽ എന്തുസംഭവിക്കും ഈ x0 ന് ചുറ്റുമുള്ള നെയ്ബർഹുഡ് നിലനിൽക്കുമോ ഉദാഹരണത്തിന് ഇത് ϵ നെയ്ബർഹുഡ് എന്നാൽ ഈ സാഹചര്യത്തിൽ ഈ x0 ന്റെ നെയ്ബർഹുഡ് ഇല്ലെന്ന് നമ്മൾ കാണുന്നു നിങ്ങൾ എടുക്കുന്ന ചെറിയ നെയ്ബർഹുഡ് ഇതിനിടയിലുള്ള x ഉം എന്തുതന്നെയായാലും ഫംഗ്ഷൻ മൂല്യവും ഈ ലിമിറ്റ് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കവിയുന്നു നിങ്ങൾ ഈ നെയ്ബർഹുഡിൽ ഏത് പോയിന്റും എടുക്കുന്നുവെന്ന് വ്യക്തമായി കാണാം f ഉം ഈ L ഉം തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നൽകിയിട്ടുള്ളതിനേക്കാൾ വർദ്ധിക്കും ഈ സാഹചര്യത്തിൽ തന്നിരിക്കുന്ന എന്നതിന് ഈ x0 ന് ചുറ്റുമുള്ള δ നെയ്ബർഹുഡ് നിലനിൽക്കാനുള്ള സാധ്യതയില്ല ഒരു നിശ്ചിത ന് f മൈനസ് L എന്ന വ്യത്യാസം നേക്കാൾ കുറയുന്ന δ നിലവിലില്ല വീണ്ടും ഓർക്കുക ലിമിറ്റ് x x0 ലേക്ക് പോകുമ്പോൾ f L ന് തുല്യമാണെന്നാണ് L ന്റെ Nϵ നെയ്ബർഹുഡിൽ ആണ് f രണ്ട് വേരിയബിളുകളുടെ ഫങ്ക്ഷനുകളുടെ ലിമിറ്റ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യും ഇത് ഇവിടെ പൊതുവായ ഈ നിർവചനത്തിന്റെ കണ്ടിന്യൂയിറ്റി മാത്രമാണ് ഈ x ഒരുപക്ഷേ ദ്വിമാന തലത്തിൽ പോയിന്റ് ചെയ്യുന്നു ഉദാഹരണത്തിന് xy തലം ലിമിറ്റ് നിർവചനം സാമാന്യവൽക്കരണത്തിനായി കൊണ്ടുപോകും ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ ഡൊമെയ്ൻ D നിർവചിച്ചിരിക്കുന്ന രണ്ട് വേരിയബിളുകളുടെ fxy ഫംഗ്ഷനായി നമ്മൾ z എടുക്കുകയും ഈ Px0y0 ഒരു പോയിന്റ് D ആകുകയും ചെയ്യട്ടെ നൽകിയ ഒരു രേഖീയ സംഖ്യ എപ്സിലോൺ ആണെങ്കിൽ ചെറുതാണെങ്കിലും നമുക്ക് ഒരു രേഖീയ സംഖ്യ കണ്ടെത്താൻ കഴിയും അതായത് ഈ പോയിന്റിന്റെ നെയ്ബർഹുഡിലുള്ള ഓരോ പോയിന്റും അപ്പോൾ L ലിമിറ്റ് എന്ന് പറയുക xy ന്റെ ഡെൽറ്റ നെയ്ബർഹുഡിൽ ഈ fxy - L എപ്സിലോണിനേക്കാൾ കുറവാണ് തന്നിരിക്കുന്ന എപ്സിലോണിനായി നമുക്ക് അത്തരമൊരു ഡെൽറ്റ കണ്ടെത്താൻ കഴിയുമെങ്കിൽ L f xy ന്റെ ലിമിറ്റ് ആണെന്ന് നമ്മൾ വിളിക്കും വീണ്ടും ഈ ലിമിറ്റ് നിലനിൽപ്പിനായി x0y0 ൽ ഫംഗ്ഷൻ നിർവചിക്കപ്പെടില്ല അതിനാൽ x y x0 y0 ന് തുല്യമാണ് തുടർന്ന് fxy ഫംഗ്ഷന്റെ ലിമിറ്റ് x y → x0 y0 ആയിരിക്കുമ്പോൾ L ആണ് പ്രതീകാത്മകമായി

രണ്ട് വേരിയബിളിന്റെ ഈ ഫംഗ്ഷനുകളിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ഈ പ്രശ്നം എടുക്കുകയാണെങ്കിൽ ലിമിറ്റ് സമീപനം ഉപയോഗിച്ച് ഈ ലിമിറ്റ് 0 ആണെന്ന് തെളിയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും ഇപ്പോൾ x y 00 എന്നതിനായി 00 ന് ഈ ഫംഗ്ഷൻ നിർവചിച്ചിട്ടില്ലാത്തതിനാൽ ഈ വ്യത്യാസം നമ്മൾ പരിഗണിക്കുന്നു ഫംഗ്ഷന്റെ വ്യത്യാസം 0 നേക്കാൾ കുറവാണ് നമ്മൾ ഇപ്പോൾ ഈ വ്യത്യാസത്തിൽ ആരംഭിക്കുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് ആകുകയും ന്റെ സമ്പൂർണ്ണ മൂല്യം എല്ലായ്പ്പോഴും 1 നും 1 നും ഇടയിലാണ് ഈ അളവ് 1 കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇത് 1 ന് തുല്യമാണ് അതിനർത്ഥം ഈ വ്യത്യാസം x2 y2 ന് തുല്യമാണ് നമുക്കറിയാവുന്നതുപോലെ ഈ 00 പോയിന്റിന്റെ നെയ്ബർഹുഡ് കാരണം ഈ ലിമിറ്റ് 00 ആയി കണക്കാക്കുന്നു 00 ഇതിന്റെ δ നെയ്ബർഹുഡ് എന്താണ് ഇത് അല്ലെങ്കിൽ ഈ അസമത്വം നമുക്ക് അവിടെ ഉപയോഗിക്കാം ഈ നെയ്ബർഹുഡിൽ നേക്കാൾ കുറവാണ് തന്നിരിക്കുന്ന എന്നതിനായി ഈ വ്യത്യാസം നേക്കാൾ കുറവാണ് മാത്രമല്ല നമ്മൾ അത്തരത്തിലുള്ളവയെ തിരയുകയും ആ അസമത്വം തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു ൽ താഴെയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ ഈ വ്യത്യാസം δ ഉം ഉം തമ്മിലുള്ള ഈ ബന്ധം നമുക്ക് നേടാനാകും നൽകിയ എന്നതിന് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ വ്യത്യാസം ϵ എന്നതിനേക്കാൾ കുറവാ തൃപ്തിപ്പെടുത്തുന്ന δ ക്ക് തന്നിരിക്കുന്ന ന് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ മൂല്യവും അതിന്റെ പരിമിത മൂല്യവും തമ്മിലുള്ള ഈ വ്യത്യാസം നേക്കാൾ കുറവായിരിക്കും ഇത് ഇവിടെ എന്നതിനേക്കാൾ കുറവായിരിക്കും ഈ നെയ്ബർഹുഡിൽ നിന്ന് x y എടുക്കുകയാണെങ്കിൽ ഇത് വീണ്ടും ഓർമിക്കുന്നതിനായി ഏത് ഘട്ടത്തിലും fx y ഫംഗ്ഷൻ മൂല്യവും അതിന്റെ പരിമിത മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തിൽ നമ്മൾ ആരംഭിച്ചു എങ്ങനെയെങ്കിലും ഈ വ്യത്യാസം നമ്മൾ രേഖപ്പെടുത്തണം അതിനാൽ x0y0 പോയിന്റിന്റെ സമീപത്തുള്ള 00 ഈ ഡെൽറ്റ അസമത്വം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമ്മൾ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് തുല്യമായതിനേക്കാൾ കുറവായിരിക്കണം എന്ന് സജ്ജമാക്കാൻ കഴിയും കാരണം ഈ വ്യത്യാസം വരുത്താൻ നമ്മൾ താൽപ്പര്യപ്പെടുന്നു N എന്ന ഫംഗ്ഷന്റെ ഈ വ്യത്യാസം പരിമിതപ്പെടുത്തുന്ന മൂല്യം നേക്കാൾ കുറവാണ് എന്നതാണ് ബന്ധം ഇത് തെളിയിക്കേണ്ട മറ്റൊരു ഉദാഹരണം ഈ സാഹചര്യത്തിൽ x y → 00 കാരണം 0 അപ്പോൾ ഫംഗ്ഷൻ നിർവചിക്കപ്പെടുന്നില്ല ഇത് 0 ആയി മാറും എന്നാൽ ഈ ലിമിറ്റ് 0 ആണെന്ന് നമ്മൾ ഇപ്പോൾ തെളിയിക്കും നമുക്ക് ഇവിടെ നേരിട്ട് 00 പകരം വയ്ക്കാൻ കഴിയില്ല കാരണം ഇത് 0 പോലെയാകും തുടർന്ന് 0 ഇവിടെ ആയിരിക്കും അത്തരമൊരു എൽ ഹോസ്പിറ്റൽ ഇല്ല ഒരു വേരിയബിളിന്റെ കാര്യത്തിൽ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ ഉണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ഈ ലിമിറ്റ് ഡെറിവേറ്റീവുകളുടെ അനുപാതത്തിന്റെ ലിമിറ്റ് തുല്യമാകുമെന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ കാര്യത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന റൂൾ എന്നാൽ ഇവിടെ നമുക്ക് ഈ പദപ്രയോഗത്തിൽ x y എന്നിവയുടെ മൂല്യം നേരിട്ട് പകരമാവില്ല ഈ ലിമിറ്റ് വീണ്ടും 0 സമീപനം ഉപയോഗിച്ച് 0 ആണെന്ന് നമ്മൾ തെളിയിക്കും നമ്മൾ ഇത് x y ≠ 00 എടുക്കുന്നു മുമ്പത്തെ ഉദാഹരണത്തിലെന്നപോലെ എന്ന ഫംഗ്ഷൻ തമ്മിലുള്ള ഈ വ്യത്യാസം നമ്മൾ വീണ്ടും പരിഗണിക്കുന്നു ഇപ്പോൾ അതിനാൽ ഇത് ന് തുല്യമാണ് ഇപ്പോൾ ഇത് പോസിറ്റീവ് ആണ് നമ്മൾക്ക് അടിസ്ഥാനപരമായി ഉണ്ട് ഇപ്പോൾ നെയ്ബർഹുഡ് അസമത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എല്ലാം എഴുതാൻ ആഗ്രഹിക്കുന്നതും സമാനമാണ് കാരണം ഈ സാഹചര്യത്തിൽ നമ്മൾ 00 പോയിന്റ് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും സ്ക്വയർ റൂട്ടും ആയിരിക്കും നമ്മൾ ഇപ്പോൾ ഈ പദപ്രയോഗത്തെ x2 y2 രൂപത്തിൽ പരിവർത്തനം ചെയ്യും എല്ലായ്പ്പോഴും 0 എന്നതിനേക്കാൾ വലുതോ തുല്യമോ ആയ ഈ അസമത്വം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് നേടും ഇത് ഈ ആണെന്നും അതിനാൽ ഇവിടെ നിങ്ങൾക്ക് 2xy യേക്കാൾ വലുതായി x2 y2 ഉണ്ടെന്നും സൂചിപ്പിക്കും നമുക്ക് കേവല മൂല്യം എടുക്കാം ഇവിടെ x2 y2 പോസിറ്റീവ് ആണ് നമുക്ക് 2 ഉണ്ട് xy ഇതിനേക്കാൾ 2 മടങ്ങ് xy യെക്കാൾ വലുതാണ് ഇത് xy നേക്കാൾ വലുതാണ് ഈ സാഹചര്യത്തിൽ xy യുടെ കേവല മൂല്യത്തേക്കാൾ x2 y2 വലുതാണെന്ന് ഈ അസമത്വം നമുക്ക് ഉപയോഗിക്കാം ഈ ബന്ധം ഉള്ളതിനാൽ നമുക്ക് ഇപ്പോൾ ഇത് |xy| മാറ്റിസ്ഥാപിക്കാം കൊണ്ട് ഹരിക്കാം ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചു ഒപ്പം ഈ ഡെൽറ്റയുടെ നെയ്ബർഹുഡ് കുറഞ്ഞത് 00 സമീപസ്ഥലത്താണെന്നും നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇത് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു വ്യത്യാസം എപ്സിലോണിനേക്കാൾ കുറവാണ് വീണ്ടും നമ്മൾ അതേ ആശയം ഉപയോഗിക്കും ഇവിടെ ഇത് ന് തുല്യമാണ് ഈ പദപ്രയോഗം പ്രവർത്തനവും പരിമിതപ്പെടുത്തുന്ന മൂല്യവും തമ്മിലുള്ള വ്യത്യാസം നേക്കാൾ കുറവാണ് ഈ ബന്ധം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്നതിനേക്കാൾ കുറവോ തുല്യമോ ആണ് നൽകിയതിന് നമ്മൾ δ തുല്യമായ ϵ അല്ലെങ്കിൽ ൽ കുറവുള്ള എന്തെങ്കിലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തുടർന്ന് ഫംഗ്ഷൻ മൂല്യവും അതിന്റെ പരിമിത മൂല്യവും തമ്മിലുള്ള വ്യത്യാസം എന്നതിനേക്കാൾ കുറവായിരിക്കും നൽകിയാൽ ആയിരിക്കുമ്പോൾ ഫംഗ്ഷൻ മൂല്യവും L ഉം തമ്മിലുള്ള ഈ വ്യത്യാസം നേക്കാൾ കുറവായിരിക്കും ഇപ്പോൾ നിഗമനത്തിലെത്താൻ രണ്ട് വേരിയബിളുകളുടെ ഫംഗ്ഷനുകൾ പ്രധാനമായും z fx y ചർച്ചചെയ്തു ഇവിടെ x y എന്നിവ സ്വതന്ത്ര വേരിയബിളാണ് അവർക്ക് ഏത് മൂല്യങ്ങളും എടുക്കാം ഇത് ഈ മൂല്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇവിടെ ഈ ഫംഗ്ഷണൽ മൂല്യം അർത്ഥമാക്കുന്നു അത്തരം ഫംഗ്ഷനുകൾ xyz തലം ഉപരിതലത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും നമ്മൾ കണ്ടു ലിമിറ്റ് നിർവചനത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിർവചനം ഒരു നിശ്ചിത സംഖ്യ ലിമിറ്റ് L ആണെന്ന് തെളിയിക്കാൻ വളരെ ഉപയോഗപ്രദമാണ് ഈ സമീപനത്തിന്റെ സഹായത്തോടെ നമ്മൾക്ക് ലിമിറ്റ് നേടാനാവില്ല എന്നാൽ ലിമിറ്റിനെക്കുറിച്ച് നമ്മൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ L ആണ് ലിമിറ്റ് എന്ന് പരിശോധിക്കാൻ ഈ സമീപനം ഉപയോഗിച്ചേക്കാം കാരണം നമുക്ക് രണ്ട് വേരിയബിളുകളുടെ ഫംഗ്ഷനുകൾ ഉള്ളപ്പോൾ ഈ രണ്ട് വേരിയബിളിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ നിരീക്ഷിക്കുന്നത് xy തലം ഒരു പ്രത്യേക പോയിന്റിലേക്ക് അടുക്കുന്ന നിരവധി ഭാഗങ്ങളുണ്ട് ഇത് ഒരു വേരിയബിളിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അവിടെ രണ്ടു ഭാഗങ്ങളുണ്ടായിരുന്നു ഒന്ന് വലതുവശത്ത് നിന്ന് ഒന്ന് ഇടത് വശത്ത് നിന്ന് നമ്മൾ വലതുഭാഗത്ത് നിന്ന് ഇടത് വശത്ത് നിന്ന് ലിമിറ്റ് നേടാറുണ്ടായിരുന്നു തുടർന്ന് അവ രണ്ടും തുല്യമാണെങ്കിൽ ലിമിറ്റ് നിലവിലുണ്ടെന്ന് നമ്മൾ പറയുന്നു എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ദിശയിലേക്ക് പല ദിശയിൽ നിന്ന് സമീപിക്കാൻ കഴിയുമെന്നതിനാൽ ചില പാതകളിലൂടെ കടന്നുപോകാൻ കഴിയില്ല കാരണം ഈ പരിമിതപ്പെടുത്തൽ പ്രക്രിയയിൽ അനന്തമായ നിരവധി ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ലിമിറ്റിനെക്കുറിച്ച് നമ്മൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടായാൽ ഈ ϵδ സമീപനം വളരെ ഉപയോഗപ്രദമാകും തുടർന്ന് ലിമിറ്റ് മൂല്യം ഇത് തീർച്ചയായും ലിമിറ്റ് ആണെന്ന് തെളിയിക്കാൻ ഉപയോഗിക്കാം അടുത്ത പ്രഭാഷണത്തിൽ ലിമിറ്റുകളെക്കുറിച്ച് കൂടുതലായി പഠിക്കും പ്രത്യേകിച്ചും ലിമിറ്റ് വിലയിരുത്തൽ ഈ പ്രഭാഷണങ്ങൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകളാണ് ഇവ വളരെയധികം നന്ദി